സെൽ കൾച്ചർ ടെക്നോളജി യുടെ ലെക്ചർ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇപ്പോൾ അഞ്ചാം ആഴ്ചയിലാണ് ആണ് ഇന്ന് നമ്മൾ അഞ്ചാം ആഴ്ചയിലെ നാലാം ക്ലാസ് ആരംഭിക്കുന്നു അതിനാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കേസ് പഠനത്തെ കുറിച്ചാണ് സംസാരിച്ചിരുന്നത് അവിടെ ഒരു കമ്പനി ഒരു കൂട്ടം തന്മാത്രകളെ അഥവാ മരുന്ന് തന്മാത്രകളെ അൽഷിമേഴ്സ്Alzheimer's രോഗികളിൽ പരീക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായി ഇവ പ്രവർത്തിക്കുന്നവയോ അല്ലാത്തവയോ ആണെങ്കിൽപോലും ആദ്യഘട്ട പരിശോധനകൾ സെൽ കൾച്ചർ പ്ലേറ്റിൽ ആവും ഹിപ്പോകാമ്പൽ ന്യൂറോണിന്റെ സെൽ കൾച്ചർ അല്ലെങ്കിൽ ന്യൂറൽ സെൽ കൾച്ചർ എങ്ങനെ സജ്ജീകരിക്കാം എന്നുവരെ നമ്മൾ എത്തി കാരണം ഈ ന്യൂറോണുകളാണ് അൽഷിമേഴ്സ്Alzheimer's രോഗത്തിൽ മരിക്കുന്നത് അതായത് ഇവിടെ ഒരു ന്യൂറോഡീജനറേറ്റീവ് അവസ്ഥയാണ് അൽഷിമേഴ്സ്Alzheimer's അടിസ്ഥാനപരമായി ഒരു ന്യൂറോഡീജനറേറ്റീവ് ഡിസോർഡറാണ് ഇതൊരു നിശ്ചിത കാലയളവിൽ ഹിപ്പോകാമ്പൽ ന്യൂറോണിന്റെ മരണത്തിലേക്ക് നയിക്കുന്നു ഇങ്ങനെ ആ വ്യക്തിക്ക് സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെടുകയും ഒടുവിൽ മരിക്കുകയും ചെയ്യുന്നു ഇത് വളരെ സങ്കടകരമായ രോഗമാണ് കാരണം നിങ്ങൾ നിങ്ങൾ ആവുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അറിയാവുന്നതിനാലാണ് അഥവാ ചുറ്റുപാടിൽ സ്വയം തിരിച്ചറിയാൻ കഴിയുന്നതിനാൽ ആണ് എന്നാൽ അൽഷിമേഴ്സ്Alzheimer's രോഗികളിൽ അവർ ആരാണെന്ന് അവർക്കറിയില്ല കാരണം ഹിപ്പോകാമ്പൽ ന്യൂറോണുകളുടെ മരണത്താൽ അവർക്ക് ഓർമ്മയുടെ അടയാളങ്ങൾ മങ്ങിപോകും വളരെ പ്രായമേറുമ്പോൾ വരുന്നതിനാൽ ഇത്തരത്തിലുള്ള രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ ലോകമെമ്പാടും ധാരാളം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിനാൽ ഇവർക്ക് വളരെയധികം പരിചരണം ആവശ്യമാണ് പ്രത്യേകിച്ചും ഇത്തരം രോഗികളെ വീടിനുള്ളിൽ പിടിച്ചുനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങൾക്ക് ജോലിക്കായി പുറത്തു പോകേണ്ടത് ഉണ്ടെങ്കിൽ പ്രായമായ അൽഷിമേഴ്സ്Alzheimer's ബാധിച്ചവർ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അവർ വീടിന് വെളിയിലേക്ക് ഇറങ്ങി പോകാം തിരികെ വരാൻ സ്വന്തം വീടുപോലും തിരിച്ചറിയാനാവാതെ നിൽക്കാം ഇത് വളരെ സങ്കടകരവും ഖേദകരവുമായ ഒരു അവസ്ഥയാണ് അതിനാൽ ഈ പശ്ചാത്തലത്തിൽ ഒരു കേസ് പഠനം വികസിപ്പിക്കുന്നത് ഒരു കമ്പനിക്ക് മരുന്ന് പരിശോധനയിൽ എന്തുചെയ്യാൻ കഴിയും ഈ ഭാഗത്തേക്ക് പോകാം ഇവിടെവരെയാണ് ഇന്ന് ആരംഭിക്കുന്നതിന് മുൻപ് വരെയുള്ള കാര്യങ്ങൾ അതിനാൽ ഇന്ന് നമ്മൾ അഞ്ചാം ആഴ്ചയിലെ നാലാമത്തെ ക്ലാസ് തുടങ്ങുന്നു W5 L4 ഉദാഹരണത്തിന് വളരെ ലളിതമായി പറഞ്ഞാൽ നിങ്ങൾക്ക് xyz എന്ന 3 വ്യത്യസ്ത മരുന്ന് തന്മാത്രകൾ ഉണ്ട് ഇപ്പോൾ ഈ 3 തന്മാത്രകൾക്കും അൽഷിമേഴ്സ്Alzheimer's രോഗികളെ സഹായിക്കൻ കഴിയുമെന്ന് കമ്പനി വിശ്വസിക്കുന്നു ഇത് പരിശോധിക്കുവാൻ ആയി ചില പാരാമീറ്ററുകൾ നിങ്ങൾക്ക് വേണം അതായത് ഉദാഹരണത്തിന് ഇത് മുഴുവനായും ഒരു സാങ്കല്പിക സാഹചര്യമാണെന്നു വിശ്വസിക്കുക x y z അൽഷിമേഴ്സിനെതിരായ Alzheimer's മരുന്ന് തന്മാത്രകൾ ആണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ഏത് പാരാമീറ്റർ സെറ്റിലൂടെ ആവും നമുക്ക് പോകേണ്ടി വരുക അതിനാൽ എന്താണ് ടെസ്റ്റിംഗ് പാരാമീറ്ററുകൾ അഥവാ മൂല്യനിർണ്ണയ പാരാമീറ്റർ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ മൂല്യനിർണ്ണയ പാരാമീറ്റർ ഈ മൂന്ന് മരുന്നുകളും നെറ്റ്വർക്കിലെ സിനാപ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതെല്ലാം സാങ്കൽപ്പികമാണ് നമ്മൾ സംസാരിക്കുന്നത് ഹിപ്പോകാമ്പൽ ന്യൂറോൺ നെറ്റ്വർക്കിലെ സിനാപ്സുകളുടെ എണ്ണത്തെ കുറിച്ചാണ് അതിനാൽ സിനാപ്സുകളുടെ എണ്ണത്തിലെ വർദ്ധനവ് ന്യൂറോണുകൾ തമ്മിലുള്ള കണക്റ്റിവിറ്റി കൂട്ടുവാൻ കാരണമാവുന്നു അതിനാൽ സെൽ കൾച്ചറിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ ഉന്നയിച്ച ചോദ്യം ഇങ്ങനെ സിനാപ്സുകളുടെ എണ്ണത്തിൽ വർദ്ധനവ് ഉണ്ടാവുന്നത് പരിശോധിക്കുവാനായി എങ്ങനെയൊരു ഇൻ വിട്രോ ന്യൂറൽ സെൽ കൾച്ചർ അസ്സേ ചെയ്യാം എന്നതാണ് ഞാൻ ആസൂത്രിതമായി കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും വേറിട്ട ഒരു സമീപനത്തിലേക്ക് മാറുന്നു അതിനാൽ നമുക്ക് വേണ്ടത് ഒരു ഹിപ്പോകാമ്പൽ ന്യൂറോണൽ നെറ്റ്വർക്ക് ആണ് ഇതെല്ലാം ഇൻ വിട്രോയിലാണ് അതിനാൽ ഈ സമയത്ത് മൃഗങ്ങളിലെ പഠനങ്ങളെക്കുറിച്ച് നാം വിഷമിക്കേണ്ടതില്ല ഇപ്പോൾ നമ്മൾ റാൻഡം കൾച്ചർ സിസ്റ്റമായ ഒരു പിരമിഡൽ ന്യൂറോൺ കൾച്ചർ സിസ്റ്റം വരെ എത്തി അതിനാൽ ഗര്ഭപിണ്ഡത്തിന്റെ 17 ദിവസത്തെ എലിയെ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത കൾച്ചർ സിസ്റ്റം ഇപ്പോൾ നമ്മുടെ പക്കൽ ഉണ്ട് ഇതാണ് നമ്മുടെ ഹിപ്പോകാമ്പൽ ന്യൂറോൺ കൾച്ചർ അതിനാൽ എപ്പോഴൊക്കെ ഇത് സിനാപ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്ന് സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം പുതിയ സിനാപ്സുകൾ ഡെൻഡ്രൈറ്റിനും ആക്സോണിനും ഇടയിൽ അഥവാ ആക്സോണുകൾക്ക് ഇടയിൽ രൂപം കൊള്ളുന്നു എന്നാണ് ഇവിടെ സിനാപ്സുകളെ തിരിച്ചറിയാനായി ഞാൻ ചുവന്ന നിറം ഉപയോഗിക്കുന്നു സിനാപ്സുകൾ രൂപം കൊള്ളുന്ന സോൺ ആണിത് ഇവയിലേക്ക് മറ്റെവിടെ നിന്നോ ആണ് ഇൻപുട്ട് ലഭിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ പരിമിതമായ എണ്ണത്തിൽ ഈ സെല്ലുകളെ നാല് വ്യത്യസ്ത കവർ സ്ലിപ്പുകളിൽ എടുക്കുക ശേഷം തീർച്ചയായും അവയുടെ ആപ്ലിക്കേഷൻ നമ്പർ വർദ്ധിപ്പിക്കണം ഞാൻ ഇവിടെ 5എണ്ണം എടുത്തിരിക്കുന്നു ഇതിനൊരു കാരണമുണ്ട് ഇതാണ് 5 കവർ സ്ലിപ്പുകൾ അഥവാ അഞ്ച് വ്യത്യസ്ത ട്രയലുകൾ ഇവ ഓരോന്നും 10 തവണ ആവർത്തിക്കുന്നത് ആയിരിക്കും അതിനാൽ നമുക്ക് 50 കവർ സ്ലിപ്പുകളിൽ നിന്നുള്ള ഡാറ്റ ലഭിക്കും ഇവിടെ നമുക്ക് 5 വ്യത്യസ്ത കേസ് പഠനങ്ങൾ ഉണ്ട് ഇപ്പോൾ മൂന്ന് കേസ് പഠനങ്ങൾ ഇതിനകം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് x y z ഇതാണ് നിങ്ങളുടെ കൺട്രോൾ പിന്നെ ഇതാണ് അസുഖത്തിന് കാരണമാകുന്ന തന്മാത്ര ഉദാഹരണത്തിന് അൽഷിമേഴ്സ്Alzheimer's രോഗത്തിന് കാരണമാവുന്ന ഒരു തന്മാത്ര ഇപ്പോൾ ഇത് Q എന്ന ഒരു റാൻഡം തന്മാത്ര ആണെന്ന് സങ്കൽപ്പിക്കുക ഇനി ഇവ ഓരോന്നും 10 കൊണ്ട് ഗുണിക്കുക ഇങ്ങനെ നിങ്ങൾക്ക് സാധ്യമായ അഞ്ച് വ്യത്യസ്ത ട്രീറ്റ്മെൻറ്കൾ 50 കവർ സ്ലിപ്പുകളിലായി ലഭിക്കും ശേഷം ഓരോ സ്ലിപ്പുകളിലും തുല്യ എണ്ണത്തിൽ സെല്ലുകൾ പ്ലേറ്റ് ചെയ്യുന്നു ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങൾ ഒരേ പ്രായത്തിൽ ഉള്ളതായിരിക്കണം അതായത് ഫീറ്റൽ 18 പിന്നെ ഇവയെല്ലാം എല്ലാം ഒരേ അവസ്ഥയിൽ ആയിരിക്കണം വളർത്തി എടുത്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ സെല്ലുകളും ഉണ്ട് ഇനി നിങ്ങൾ തീരുമാനിക്കേണ്ടത് മരുന്നിനെ എപ്പോഴാണ് ചേർക്കുന്നത് എന്നതാണ് ആദ്യം ഒന്നുമില്ലാത്ത കൺട്രോൾലേക്ക് മരുന്ന് ചേർക്കുന്നു ശേഷം ഇവ സെല്ലുകൾക്ക് കേടുപാടുകൾ ഉണ്ടാവാതെ സിനാപ്സുകളുടെ എണ്ണം വർധിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇതെങ്ങനെയാണ് സാധൂകരിക്കുക മൊത്തം സിനാപ്സുകളുടെ എണ്ണം കണക്കാക്കിയാൽ നിങ്ങൾ ഇത് സാധൂകരിക്കാനാകും ഇതിനായി സിനാപ്സുകളെ ഫ്ലൂറസന്റ് ലേബൽ ചെയ്യാം സിനാപ്സ് എന്നത് ഒരു സോൺ ആണ് അതിനാൽ ഇതൊരു ഒരു ന്യൂറോൺ ആണെങ്കിൽ ഇത് മറ്റൊരു ന്യൂറോൺ ആണെങ്കിൽ ഇവ തമ്മിലാവും സിനാപ്സുകൾ ഉണ്ടാക്കുക ഇത് ഇതുപോലൊന്നായിരിക്കും ഇതിനായി സിനാപ്റ്റോഫിസിൻ സിനാപ്സിൻ എന്നിങ്ങനെ ഫ്ലൂറസെന്റ് ടാഗുകളുണ്ട് ഇവയെല്ലാം പ്രോട്ടീനുകളാണ് ഇതുകൂടാതെ വേറെയും ഫ്ലൂറസെന്റ് ടാഗുകളുണ്ട് ഈ പ്രോട്ടീനുകൾ അവിടെ ഉണ്ടെങ്കിൽ കൂടാതെ ഈ പ്രോട്ടീനെതിരെ ഉള്ള ആന്റിബോഡിയും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവ തമ്മിൽ ബന്ധിക്കും പിങ്ക് നിറത്തിൽ കാണുന്നതാണ് ആന്റിബോഡി കൂടാതെ ഈ ആന്റിബോഡിയെ ഒരു ഫ്ലൂറസെന്റ് റോ ഉപയോഗിച്ച് കൂടുതൽ ലേബൽ ചെയ്യാനാകും ഉദാഹരണത്തിന് ഞാൻ ഈ നിറം ഉപയോഗിച്ചുകൊണ്ട് ഫ്ലൂറസെന്റ് റോ കാണിക്കാം ഇതാണ് ഫ്ലൂറസെന്റ് റോ ഇനി നിങ്ങൾക്ക് ഇവയെ എണ്ണുവാൻ സാധിക്കും ഇതിനെയാണ് സിനാപ്റ്റിക് ബട്ടണുകൾ എന്ന് വിളിക്കുന്നത് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മൊത്തം ബട്ടണുകളുടെ എണ്ണം കണക്കാക്കാം അതിനാൽ മറ്റൊന്നും ഇല്ലാതെതന്നെ x അഥവാ y അഥവാ z ചേർക്കുമ്പോഴും ഓരോ യൂണിറ്റ് ഏരിയയിലും ആകെ സിനാപ്സുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും ഇനി ഞാൻ നിങ്ങൾ ആഗ്രഹിച്ച വഴിക്ക് വിശകലനം ചെയ്യാൻ വിട്ടു തരുന്നു തുടർന്ന് നെഗറ്റീവ് കണ്ട്രോളും ഇവിടെയുണ്ട് ഇനി കേടുപാടുകൾ വരുത്തുന്ന ചില ഘടകങ്ങളുണ്ടെങ്കിൽ Q എന്ന ആ കേടുവരുത്തുന്ന ഘടകത്തെയും ചേർക്കുക ശേഷം സിനാപ്സിലെ സിനാപ്റ്റിക് ബട്ടണുകളുടെ എണ്ണത്തിലെ കുറവ് നോക്കുക അതിനാൽ നിങ്ങൾ എന്താണ് കണക്കാക്കുക ക്വാണ്ടിഫൈയിംഗിലേക്ക് പോയാൽ ഞാൻ എന്താണ് ഇവിടെ കണക്കാക്കുന്നത് സിനാപ്റ്റിക് ബട്ടണുകളുടെ അടിസ്ഥാനത്തിലാവും ഞാൻ ഇത് കണക്കാക്കുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഇത് മൂന്നും പരീക്ഷിച്ചുനോക്കിയാൽ അവശേഷിക്കുന്നത് Q ആണ് ഇവിടുന്ന് നിങ്ങൾ ഇപ്പോൾ ഉള്ള 3 ട്രീറ്റ്മെൻറ്കൾ കൂടാതെ വീണ്ടും 3 ട്രീറ്റ്മെൻറ്കൾ കൂടി കൂട്ടുന്നു തുടക്കത്തിൽ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ ഇവയെ ചേർക്കുന്നു അതായത് Q സമം x Q സമം y Q സമം z ശേഷം ഇതും പത്തുവട്ടം ചെയ്യുന്നു ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന 50ൻറെ കൂടെ 30 കൂടി ചേരുന്നു ഇപ്പോൾ കവർ സ്ലിപ്പുക്കളുടെ എണ്ണം 8 ആയിരിക്കുന്നു ഇനി നിങ്ങൾ മൊത്തമായി നോക്കുകയാണെങ്കിൽ ഇതൊരു റാൻഡം സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് എങ്ങനെ കണക്കാക്കണം നിങ്ങൾക്ക് 8 വ്യത്യസ്ത ട്രീറ്റ്മെൻറ്കൾ ഉണ്ട് അതായത് 1 2 3 4 5 6 7 8 അതിനാൽ T 1 T 2 T 3 T 4 T 5 T 6 T 7 T 8 ഇതാണ് നിങ്ങളുടെ കൺട്രോൾ ഇത് x ഇത് y ഇത് z ഇത് Q സമം x ഇത് Q സമം y ഇത് Q സമം z ഇനി നിങ്ങൾക്ക് ഒന്നുകിൽ റാൻഡം F18 ഫീറ്റസിന്റെ ഹിപ്പോകാമ്പല് ന്യൂറോണ് നെറ്റ്വര്ക്കുകളിലെ സിനാപ്റ്റിക് ബട്ടണുകളുടെ ശതമാനമോ അബ്സല്യൂട്ട് എണ്ണമോ അനുസരിച്ച് പോകാം ഇവിടെ നിങ്ങൾ ശതമാനം എടുക്കുന്നു ഇവിടുന്ന് നിങ്ങൾക്ക് ചില വാല്യൂസ് ലഭിക്കും അതായത് y മികച്ച പ്രകടനം കാഴ്ചവെച്ചു z ഇതിനിടയിൽ എവിടേലും വരും എന്നു കരുതുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബാർ ഗ്രാഫ് ലഭ്യമാകും ഉദാഹരണത്തിന് Q വളരെ താഴെ ആണെന്ന് സങ്കൽപ്പിക്കുക ഇവിടെ കുറച്ച് പുരോഗതി കാണുന്നു എന്തുകൊണ്ടാവും പിന്നെ ഇവിടെയും ചില പുരോഗതി കാണുന്നുണ്ട് ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാൽ ഈ 8 ട്രീറ്റ്മെൻറ്കളും താരതമ്യം ചെയ്യുക എന്നതാണ് T1 T2 വിനെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാണോ ഇനി നേരെ തിരിച്ചും പിന്നെ T2 T3യെ അപേക്ഷിച്ച് വ്യത്യസ്തമാണോ അതേപോലെ T3 യും T4 ഉം ഇങ്ങനെ T1 മുതൽ T4 വരെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ വിശകലനങ്ങൾ നടത്തിയാൽ ഇവയിൽ ഏതാണ് പുറത്തു നിൽക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാവും എന്നാൽ ഈ ഉദാഹരണത്തിൽ ഒന്നും തന്നെ പുറത്തായിട്ടില്ല ഇവിടെനിന്ന് ഉറപ്പുള്ള ഒന്നിനെ ലഭിച്ചു ഇനി നമ്മൾ ഈ തന്മാത്രയെ അടുത്ത ഘട്ടത്തിലെ പരീക്ഷണത്തിനായി എടുക്കും എന്നാൽ ഇതേ പരീക്ഷണം പലതവണ ചെയ്യേണ്ടതുണ്ട് അതു മാത്രമല്ല ഓവർടൈം വിൻഡോയിലും ഇത് ചെയ്യേണ്ടതുണ്ട് അതായത് എത്ര ദിവസം ഇവയ്ക്ക് പ്രവർത്തിക്കാൻ ആകുമെന്ന് ഉദാഹരണത്തിന് ഇവിടെ ഈ കൾച്ചറിൽ അഞ്ച് ദിവസമാണ് അങ്ങനെയെങ്കിൽ 10 ദിവസം 20 ദിവസം 40 ദിവസം 60 ദിവസം രണ്ട് മാസം ആകുമ്പോൾഓ അതിനാൽ ഈ മുഴുവൻ കാര്യങ്ങളും വ്യത്യസ്ത സമയങ്ങളിൽ എങ്ങനെ സംഭവിക്കും എന്നറിയാനും ഇതിൽ എക്സ്പർട്ട് ആകാനും സെൽ കൾച്ചർൻറെ പിന്തുണ വലിയ തോതിൽ തന്നെ ആവശ്യമാണ് ഇനി ഇവിടെ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം ഇവിടെ ഇനി ചില പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അവയൊക്കെയാണ് ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്താവും നിങ്ങൾ നേരിടാൻ പോകുന്ന ആ രസകരമായ പ്രശ്നങ്ങൾ ആദ്യത്തെ പ്രശ്നം ഞാൻ അവരെ ആവർത്തിച് ഉപയോഗിക്കുന്ന പദമാണ് അതായത് ഒരു റാൻഡം കൾച്ചർ ആണ് എന്നതാണ് ഹിപ്പോകാമ്പൽ ടിഷ്യു ഞാൻ കാണിച്ചു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിനാൽ നിങ്ങൾക്ക് ഇപ്പോ CA 1 CA 2 CA 3 CA 4 ഉണ്ട് ഇവിടെ ആയിട്ട് ഡെന്റേറ്റ് ഗൈറസ് ഉണ്ട് dg CA 1 CA 2 CA 3 CA 4 ഉരുണ്ടകൊണ്ടേയിരിക്കുന്ന ഈ പാത്വേക്കൾ സിസ്റ്റമാറ്റിക് പാത്വേകളാണ് അതായത് ഇതുപോലെ അതിനാൽ വളരെ സവിശേഷമായ സിസ്റ്റമാറ്റിക് പാത്വേ ആണിത് അതിനാൽ നമ്മൾ ഡിഫൈൻഡ് ആയ ഒരു സാഹചര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇതിനു മുൻപുള്ള സ്ലൈഡിൽ കാണിച്ചതുപോലെ റാൻഡം നെറ്റ്വർക്ക് ആയിരിക്കും ഇതൊരു യഥാർത്ഥ പ്രാതിനിധ്യമല്ല യഥാർത്ഥ ഹിപ്പോകാമ്പൽ നെറ്റ്വർക്കിനോട് അടുത്ത പ്രാതിനിധ്യവുമല്ല ഇത് അതിൻറെ ഒരു ഭാഗം മാത്രമാണ് റാൻഡം കൾച്ചർ കൃത്യമായ പ്രാതിനിധ്യമല്ല അതിനാൽ ശരിയായ പരിഹാരത്തെ അനുകരിക്കാൻ കഴിയുമോ എന്നതാണ് നമ്മുടെ വെല്ലുവിളി പരിഹാരങ്ങൾ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നു ഇതാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്ന പോരായ്മകളുടെ പ്രധാന വശങ്ങൾ ഇപ്പോൾ പരിഹാരത്തെ അനുകരിച്ച് ഒരു പാറ്റേൺ നെറ്റ്വർക്ക് ഉണ്ടാക്കാം ഇതാണ് point 1 ഇത് നമ്മളെ സബ്സ്ട്രേറ്റ് എഞ്ചിനീയറിംഗിന്റെ ഡൊമെയ്നിലേക്ക് കൊണ്ടുപോകും രണ്ടാമത്തെ പോരായ്മ റാൻഡം കൾച്ചർ ആണ് സിസ്റ്റത്തിൻറെ ആദ്യത്തെയും രണ്ടാമത്തെയും പോരായ്മ റാൻഡം കൾച്ചറിലാണ് വളരെ ബുദ്ധിമുട്ടേറിയ കണക്കുകൂട്ടലുകൾ ആണ് ഇവിടുത്തെ വെല്ലുവിളി നിങ്ങൾക്കൊരു പാറ്റേൺ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് പരിഹരിക്കുവാൻ കഴിയൂ അതിനാൽ അവ തമ്മിൽ ഒരു ബന്ധമുണ്ട് അതിനാൽ രണ്ടാമത്തെ പ്രധാന പോരായ്മ 2D കൾച്ചർ ആണ് ഇതൊരു 2 ഡൈമൻഷണൽ കൾച്ചർ ആണ് എന്നാൽ ഈ മുഴുവൻ ഘടനക്കും x അക്ഷത്തിനും y അക്ഷത്തിനും ഒപ്പം ഒരു z അക്ഷം കൂടി ഉണ്ട് അതിനാൽ z അക്ഷം എവിടെയാണ് ഒരു 3D പാറ്റേൺ കൾച്ചർ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമോ ഇതാണ് ഭാവിയിലെ വെല്ലുവിളി നിങ്ങൾ ആ അവയവത്തെ ഒരു ഡിഷിൽ ഏറെക്കുറെ അനുകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഇത് നിങ്ങളെ ലാബ് ഓൺ എ ചിപ്പ് എന്ന ആശയത്തിൽലേക്ക് കൊണ്ടുപോകും ലാബ് ഓൺ എ ചിപ്പ് ആണ് മൂന്നാമത്തെ പോയിൻറ് അതായത് 3D പാറ്റേൺ ഇപ്പോൾ നമ്മൾ ഒരു ചുവട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നാൽ ഈ ഗെയിമിൻറെ പ്രധാന വെല്ലുവിളിയുടെ ഭാഗം മറ്റെന്തോ ആണ് ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് F18 ടിഷ്യുവാണ് എന്നാൽ അൽഷിമേഴ്സ്Alzheimer's ഫീറ്റസിൽ ഉണ്ടാവില്ല പ്രായമായവരിൽ ആവും ഉണ്ടാവുക ഇപ്പോൾ ഫീറ്റസിൽ നിന്നും എടുത്ത കൾച്ചർ ഉപയോഗിച്ച് മുതിർന്നവർക്ക് കാരണമാകുന്ന ഒരു രോഗത്തെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ ഓപ്ഷൻ എന്താണ് ഞങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ ഇത് മുതിർന്നവരിൽ ചെയ്യണം എന്നാണ് ഇപ്പോൾ മുതിർന്നവരിലെ ഹിപ്പോകാമ്പൽ ന്യൂറോൺ കൾച്ചർ ഉണ്ട് ഇനി ഇത് 3 ഡൈമൻഷണൽ പാറ്റേണിലും ലഭിക്കണം അതിനാൽ ഈ മൂന്ന് പേരും ഒരുമിച്ച് നമുക്ക് ഒരു മോഡൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് ബിങ്കോ ആയിരിക്കും അത് മിക്കവാറും മുൻപുണ്ടായിരുന്ന മോഡലിനെ കാളും കുറച്ചുകൂടി അടുപ്പം ഉള്ളതായിരിക്കും ഇവിടെ ലളിതമായ ഒരു കേസാണ് ആണ് നമ്മൾ എടുത്തതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും അടുത്ത ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും